ഹായ് എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഐ ടിയിൽ നിന്നുള്ള രവിചന്ദ്രനാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും കോഴ്സുകൾ നൽകുന്നതിനുള്ള എൻ മൂക് പദ്ധതിയുടെ ഭാഗമാണിത് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങളുമായി സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി തുടർന്ന് വ്യക്തിത്വ വികസനം എന്തുതന്നെയായാലും നിങ്ങൾ സംഘർഷ പരിഹാര കഴിവുകൾ വികസിപ്പിക്കണമെന്ന് നിർദേശിക്കുകയും ചെയ്തു നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുകയും മികച്ചതിനുള്ള നിങ്ങളുടെ മനോഭാവം വികസിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ രൂപത്തിൽ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ പ്രത്യേകിച്ചും വ്യക്തിപരമായ ചില സംഘട്ടനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിക്കും തുടർന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാന് പോകുന്ന ചില ഉദാഹരണങ്ങളിൽ പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ തിരിച്ചെടുക്കാം നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ദ്രുത ഹൈലൈറ്റുകൾ സംഘർഷങ്ങൾക്ക് ലഭ്യമായ വിവിധ നിർവചനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പക്ഷേ വലിയ സംഘർഷങ്ങൾ അഭിപ്രായവ്യത്യാസങ്ങൾ പോരാട്ടങ്ങൾ വഴക്കുകൾ എന്നിവയെക്കുറിച്ചാണ് അവ സാധാരണ ജീവിതതിന്റെ ഭാഗമാണ് സംഘർഷ പരിഹാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ വിനാശകാരിയായ ഒരു വ്യക്തിയാകാം സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ക്രിയാത്മകമായ വഴികളും ഉപയോഗിക്കാം പക്ഷേ സംഘർഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്നതും പറയാത്തതും എന്തെല്ലാം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സംഘർഷം സൃഷ്ടിക്കുകയും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ അത് കഴിയുന്നത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എസ്കലേറ്റിംഗ് എലിമിനേറ്റിംഗ് എന്നിവയുടെ കാര്യത്തിൽ നമ്മ ൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു നമ്മ ൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അവസാനം ഞാൻ പറഞ്ഞു മൂന്ന് തലത്തിലുള്ള സംഘർഷ പരിഹാരങ്ങൾ ഉണ്ടെന്ന് ഒന്ന് ചർച്ച മറ്റൊന്ന് മധ്യസ്ഥത രണ്ട് ആളുകൾ ഒരുമിച്ച് ഇരിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ചർച്ച മസ്തിഷ്കപ്രക്ഷോഭവും എന്നാൽ മധ്യസ്ഥത പരസ്പരം കൂടുതൽ അറിയാവുന്ന ഒരു മൂന്നാം കക്ഷിയെ വിളിക്കുന്നു തുടർന്ന് ആ വ്യക്തി മധ്യസ്ഥത വഹിക്കാനും ബന്ധം ശരിയായ രൂപത്തിൽ തിരികെ കൊണ്ടുവരാനും ശ്രമിക്കുന്നു അവസാനത്തെ തരത്തിൽ അതായത് നിങ്ങൾ വീണ്ടും ഒരു മൂന്നാം കക്ഷി മൂന്നാം വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്ന വ്യവഹാരമാണ് പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അത് രാഷ്ട്രീയക്കാരനായിരിക്കാം നേതാവായിരിക്കാം ആയിരിക്കാം നിങ്ങളുടെ ബോസ് ആയിരിക്കുക അത് ഒരു ജഡ്ജിയായിരിക്കാം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നിയമപരമായ ശേഷിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതിനാൽ സാധാരണയായി ആവശ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ മദ്ധ്യസ്ഥന്റെ അടുത്തേക്ക് പോകാവൂ അല്ലാത്തപക്ഷം നിങ്ങൾ വ്യക്തിപരമായ തലത്തിൽ ലളിതമായ ചർച്ചകളിലൂടെ സംഘർഷം പരിഹരിക്കാൻ ശ്രമിക്കുന്നു പരിഹരിക്കുമ്പോൾ വിജയ മനോഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിജയ പരിഹാരവുമായി ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക തുടർന്ന് എല്ലാ കക്ഷികൾക്കും അനുകൂലമായ രീതിയിൽ സംഘർഷം പരിഹരിച്ചാൽ സമാധാനവും ഐക്യവും ഉണ്ടാകും ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെഃ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു ഇന്നലെ എങ്ങനെയായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു പിന്നെ എങ്ങനെയായിരുന്നു അത് സംഘർഷങ്ങളൊന്നുമില്ലാതെയായിരുന്നോ അത് നടന്നത് സംഘർഷങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിച്ചോ തുടർന്ന് നിങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചോ അതോ സംഘർഷങ്ങളൊന്നുമില്ലാത്ത ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ നിങ്ങളുടെ ജീവിതം പ്രയാസങ്ങളില്ലാത്തതായിരിക്കണമെന്നും ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ വിരസമായ ജീവിതമായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ജീവിതം വളരെ ബോറടിപ്പിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഈ സാഹചര്യം നൽകുന്നു നിങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ എന്തിനാണ് ഒരു സിനിമയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു സിനിമ ബ്ലോക്ക്ബസ്റ്ററായി മാറുന്നത് ഒരു സിനിമാ സാഹചര്യം നോക്കൂ വളരെ സുന്ദരനായ ഒരു ആൺകുട്ടി ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു ആൺകുട്ടി ബുദ്ധിമാനാണ് മിടുക്കനാണ് പിന്നെ അവന്റെ കയ്യിൽ ഒരു ജോലിയുണ്ട് അതുപോലെ പെൺകുട്ടിയും ബുദ്ധിമതിയും മിടുക്കിയുമാണ് അതിനാൽ അവർ പരസ്പരം പ്രണയത്തിലാകുന്നു അവർ മാതാപിതാക്കളോട് പറയുന്നു മാതാപിതാക്കളും ഒരേ സമുദായത്തിൽ പെട്ടവരാണ് ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് അതിനാൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും പിന്നീട് അവർ പരസ്പരം കാണുകയും തുടർന്ന് അവർ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ അവർ വിവാഹം കഴിക്കുന്നു അവർക്ക് കൃത്യസമയത്ത് കുട്ടികളുണ്ടാവുന്നു കുട്ടികളും വളരുന്നു അവർ മിടുക്കരാണ് അവരും സന്തുഷ്ടരാണ് പിന്നെ അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു ഇതുപോലുള്ള ഒരു സിനിമ കാണാൻ നിങ്ങൾ 200 രൂപ ടിക്കറ്റ് നൽകുമോ ഇല്ല നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യില്ല കാരണം നിങ്ങൾ പോകുമ്പോൾ ജീവിതം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹമുണ്ട് അവൻ സുന്ദരനായിരിക്കാം പക്ഷേ പെൺകുട്ടി സുന്ദരിയല്ല സംഘർഷം ആരംഭിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടി സുന്ദരിയും ബുദ്ധിമാനും ആൺകുട്ടി അത്ര മിടുക്കനുമല്ല എ ങ്കിൽ സംഘർഷം വീണ്ടും ആരംഭിക്കുന്നു ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ആദ്യം പരസ്പരം ഇഷ്ടപ്പെട്ടില്ല എന്നാൽ മുൻ സാഹചര്യത്തിൽ അവർ ഉടൻ തന്നെ പരസ്പരം പ്രണയത്തിലായി അവർ വഴക്കിടാൻ തുടങ്ങുന്നു അവർ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് അത് മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത് അവർ പരസ്പരം പഠിച്ച മറ്റൊരു തരത്തിലുള്ള സംഘട്ടനമായിരുന്നു ഇപ്പോൾ അവർ ഇത് മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു തങ്ങൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെന്ന് മാതാപിതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു സംഘർഷം വീണ്ടും ആരംഭിക്കുന്നു ഇപ്പോൾ മാതാപിതാക്കൾ തയ്യാറാണെങ്കിൽപ്പോലും ഇപ്പോൾ അവർക്ക് ചുറ്റുമുള്ള മതസമൂഹം ഈ രണ്ട് കുട്ടികളെയും വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ല തർക്കം തുടരുന്നു ഇപ്പോൾ ഒരു രക്ഷിതാവ് പോയി മറ്റേ മാതാപിതാക്കളുമായി സംസാരിക്കുന്നു മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല സംഘർഷം തുടരുന്നു ഇപ്പോൾ മതത്തിനുപുറമെ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് വ്യത്യസ്ത ജാതി ഈ പ്രശ്നം കാരണം മാതാപിതാക്കൾ രണ്ടുപേരും യോജിക്കുന്നില്ല ഇപ്പോൾ അവർ സമ്മതിച്ചാലും അത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹമുണ്ട് ഇപ്പോൾ നടൻ നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെ സംഘർഷങ്ങൾ പരിഹരിക്കും തുടർന്ന് ഒരു വലിയ സംഘർഷമുള്ള ക്ലൈമാക്സിലേക്ക് സിനിമ കൊണ്ടുവരികയും തുടർന്ന് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ തിയേറ്റർ വിട്ട് പോകുന്നു ആ സിനിമ കാണാൻ നിങ്ങളുടെ 200 രൂപ നൽകാൻ നിങ്ങൾ തയ്യാറാണ് സംഘർഷം പരിഹരിക്കപ്പെടുന്ന രീതിയെ ആശ്രയിച്ച് സിനിമ ഒരു ബ്ലോക്ക്ബസ്റ്ററായി മാറുന്നു അതിനാൽ നിങ്ങൾ ഈ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സാങ്കൽപ്പിക കാര്യങ്ങൾ കാണുന്നതിലൂടെ സംഘർഷം എങ്ങനെ പരിഹരിക്കാമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും തുടർന്ന് നിങ്ങൾ തിയേറ്ററിൽ പോകാൻ ആഗ്രഹിക്കുന്നതിനുള്ള ഒരു കാരണമാണിത് അതുകൊണ്ടാണ് നിങ്ങൾ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഗോസിപ്പുകളിൽ ഏർപ്പെടാനുള്ള ഒരു കാരണം ആരെങ്കിലും അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇത് വളരെ വൈരുദ്ധ്യമുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ ഈ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ചുരുക്കത്തിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു ജീവിതത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ജീവിതം വളരെ മങ്ങിയതും വളരെ വിരസവും വളരെ മുഷിപ്പുള്ളതുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രചോദനാത്മകമായ ഒരു ജീവിതം വേണമെങ്കിൽ നിങ്ങൾക്ക് സംഘർഷങ്ങൾ ആവശ്യമാണ് എന്നാൽ വിജയ മനോഭാവം പുലർത്തുന്നതിനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും വളരെ അനുകൂലമായ രീതിയിൽ അത് പരിഹരിക്കുന്നതിനും നിങ്ങൾക്ക് വളരെ നല്ല റെസല്യൂഷൻ കഴിവുകൾ ആവശ്യമാണ് നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇരുവശവും നോക്കാൻ കഴിയണമെന്ന് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു രണ്ട് ആളുകളുണ്ടെന്ന് നമുക്ക് പറയാം തുടർന്ന് നിങ്ങൾക്ക് ഇരുവശവും നോക്കാൻ കഴിയണം പക്ഷേ ചിത്രം നോക്കൂ രണ്ട് ചിത്രങ്ങളും ഒരു നിമിഷം നോക്കൂ ആദ്യത്തെ ചിത്രത്തിൽ ഒരു ചതുരാകൃതിയിലുള്ള ചെറിയ ചതുരമുണ്ട് ഈ ചെറിയ ചതുരം നിങ്ങൾ എവിടെയാണ് കാണുന്നത് ഈ ചതുരം വലതുവശത്താണോ പിൻവശത്തിന്റെ താഴെയാണോ അതോ ഇടതുവശത്താണോ മുൻവശത്തിന്റെ മുകളിലാണോ രണ്ട് വശങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഈ ചതുരം കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇത് ചെറുതല്ലാത്ത ഒരു വലിയ ചതുരമായി കാണാൻ കഴിയും തുടർന്ന് അവ നാല് വശങ്ങൾ മാത്രമാണ് തുടർന്ന് ഇത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം അതുതന്നെയാണ് പ്രശ്നം നിങ്ങൾ 1 മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റേത് നഷ്ടപ്പെടുത്തുന്നു മറ്റൊന്ന് മാത്രമല്ല അതിനെ ഒരു മൂന്നാം കോണിൽ നിന്ന് നോക്കാനുള്ള സാധ്യതയും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഇപ്പോൾ ഒരു സംഘർഷത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലായ്പ്പോഴും ഒരു വ്യക്തി നിങ്ങളോട് സത്യം പറയുകയല്ല മറ്റേ വ്യക്തിയും തുല്യമായി മറ്റേതെങ്കിലും സത്യം നിങ്ങളോട് പറയുന്നു പക്ഷേ സത്യം യഥാർത്ഥത്തിൽ ഇതു രണ്ടും ആയിരിക്കണമെന്നില്ല അത് ഈ രണ്ടിനുമപ്പുറമുള്ള മറ്റേതെങ്കിലും ആയിരിക്കാം അത് പരിഹരിക്കാൻ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കേൾക്കുകയും തുടർന്ന് അത് പരിഹരിക്കുകയും വേണം നിങ്ങൾ നിഗമനങ്ങളിലേക്ക് ചാടരുത് അടുത്ത ഉദാഹരണം നോക്കൂ ഇവിടെ ഒരു ചെറിയ വൃത്തം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് എവിടെയാണ് കാണുന്നത് ഫസ്റ്റ് ലുക്കിലാണോ അത് മുൻവശത്താണോ മധ്യത്താണോ അതോ പിന്നിൽ എവിടെയെങ്കിലും താഴെയാണോ നിങ്ങൾ ഇത് എവിടെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരേ കാര്യത്തെ നോക്കാൻ എല്ലായ്പ്പോഴും രണ്ട് വഴികളുണ്ട് ഒരു മൂന്നാം മാർഗ്ഗവും ഉണ്ടാകാം ചിലപ്പോൾ നാലാമത്തെ മാർഗ്ഗവും ഉണ്ടാകാം ഏതെങ്കിലും സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നാം ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇരുവശവും നോക്കുക എന്നാൽ അതേ സമയം ഒരു മൂന്നാം വശവും ഉണ്ടാകാമെന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾ മധ്യസ്ഥനാകാൻ പോകുകയാണെങ്കിൽ അനുകൂലമായ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക ഉൾപ്പെട്ട കക്ഷികളുമായി പോലും നിങ്ങൾക്ക് ബുദ്ധിപരമായി ഇടപെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിരവധി സുഖകരമായ വശങ്ങൾ നോക്കാൻ കഴിഞ്ഞേക്കും ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ചില സംഘർഷ പരിഹാര വൈദഗ്ധ്യങ്ങളും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രക്രിയയും നോക്കാം നിങ്ങൾ ഒരു സംഘർഷം പ്രത്യേകിച്ച് വ്യക്തിപരമായ സംഘർഷം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതിനുമുമ്പ് നിങ്ങൾ അനുയോജ്യമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കണം അതായത് ബോസും തൊഴിലാളിയും ഓഫീസിൽ തർക്കിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ കാന്റീനിലേക്കോ കഫറ്റീരിയയിലേക്കോ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കോ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക അതിനാൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിലെ ഈ മാറ്റം ഒരു മാറ്റമുണ്ടാക്കാൻ പോകുന്നു രണ്ടാമതായി അവർ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാം നിങ്ങൾക്ക് അവരോട് ബ്രെയിൻ സ്റ്റോം Brain സ്റ്റോർം നടത്താൻ ആവശ്യപ്പെടാം അതായത് കഴിയുന്നത്ര പരിഹാരങ്ങളുമായി വരാൻ നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാം അവർ പരിഹാരങ്ങളുമായി വന്നാൽ നിങ്ങൾ അവയെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നതിനുപകരം വസ്തുതകൾ നേടാൻ ശ്രമിക്കുക വസ്തുനിഷ്ഠമായ വസ്തുതകൾ നേടാൻ ശ്രമിക്കുക എന്താണ് സംഭവിച്ചത് ആരാണ് ആദ്യം ആരംഭിച്ചത് ആരാണ് എന്താണ് ചെയ്തത് ഏത് സമയം ഏത് മുൻപ് ഏത് പിന്നീട് വന്നു ആരാണ് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങി വെച്ചതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും മിക്കപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തുടക്കമിട്ട ഒരു പ്രശ്ന സ്രഷ്ടാവ് ഉണ്ടായിരിക്കാം അശ്രദ്ധമായി അല്ലെങ്കിൽ ബോധപൂർവ്വം പോലും മുഴുവൻ സംഘട്ടനവും സാധ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വസ്തുതകൾ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലെങ്കിൽ റിഫ്ലെക്റ്റീവ് ലിസണിംഗ് നടത്താൻ കഴിയണം എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ റിഫ്ലെക്റ്റീവ് ലിസണിംഗ് നിങ്ങൾ ഒരു വ്യക്തിയെ സജീവമായി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എല്ലാ കണ്ണുകളും ചെവികളുമായി ആ വ്യക്തിയെ ശ്രവിക്കുന്നു തുടർന്ന് നിങ്ങൾ തടസ്സങ്ങളില്ലാതെ ആ വ്യക്തിയെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആ വ്യക്തിയെ തുടരാൻ പ്രേരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾക്ക് ഹ്രസ്വമായി സംഗ്രഹിക്കാം നിങ്ങൾക്ക് ഹ്രസ്വമായി ചില ചോദ്യങ്ങൾ ചോദിക്കാം അത് ആ വ്യക്തിയെ തുടരാൻ പ്രേരിപ്പിക്കും എന്നാൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റേ വ്യക്തിയുടെ വായിൽ വയ്ക്കാതെ കഥയുമായി നിങ്ങളല്ല എല്ലായ്പ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുകയും മറ്റൊരാളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക അതിനാൽ സജീവമായ ശ്രവണം വളരെ പ്രധാനമാണ് അടുത്ത പ്രധാന കാര്യം പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വ്യക്തിയിലല്ല അപ്പോൾ ആരാണ് എന്താണ് ചെയ്തത് ആരാണ് ഉത്തരവാദികൾ നിങ്ങൾ എന്തിന് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തണം അതിനാൽ അത് പ്രധാനമല്ല പക്ഷേ ഇപ്പോൾ എന്തോ സംഭവിച്ചു ഒരു സംഘർഷമുണ്ട് തർക്കം നമുക്ക് എങ്ങനെ പരിഹരിക്കാനാകും അതിനാൽ അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും കോപിക്കു കയാണെങ്കിൽ ഇപ്പോൾ കോപം ഇല്ലാതാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് മുമ്പത്തേതിൽ ഞാൻ പറഞ്ഞ ചില നിർദ്ദേശങ്ങൾഃ ആ വ്യക്തി ശബ്ദം ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് നിങ്ങൾ ശാന്തത പാലിക്കുകയും സംയമനം പാലിക്കുകയും വേണം നിങ്ങൾ വളരെ കൂൾ ആയിരിക്കണം ഇപ്പോൾ ആ വ്യക്തി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ മര്യാദയുള്ളവരായിരിക്കുക നിങ്ങൾ വളരെ ശാന്തമായിരിക്കുക നിങ്ങൾ പ്രകോപിപ്പിക്കപ്പെടരുത് ഇപ്പോൾ ദേഷ്യപ്പെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു നിങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന മറ്റ് വഴികൾ ആ വ്യക്തി പുറത്തുനിന്ന് വരുന്നതുപോലെയാണ് തുടർന്ന് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ എന്തോ ഒന്ന് വളരെ ദേഷ്യത്തിലാണെന്ന് അവൻ കേട്ടു തുടർന്ന് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് നിങ്ങളോട് നിലവിളിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇരിക്കാൻ താൽപ്പര്യമില്ലെന്ന് വിനയത്തോടെ പറയാം പിന്നെ ഞാൻ കുറച്ച് കാപ്പി ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തണുത്ത പാനീയം നൽകും തുടർന്ന് നിങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ വ്യക്തി തീർച്ചയായും പറയുംഃ ഇല്ല ഞാൻ അങ്ങനെയല്ല ഇല്ല ഞാൻ ഒരു ചായയോ തണുത്ത പാനീയമോ കുടിക്കാൻ വന്നതല്ല എന്നാൽ നിങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളമെങ്കിലും എടുക്കാമെന്ന് അദ്ദേഹത്തോട് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്കായി കൊണ്ടുവരാം ദയവായി അത് കഴിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ കോപം ഇല്ലാതാക്കി ദീർഘനേരം കോപം തുടരുന്നത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മിക്കപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകൾ ഒന്നുകിൽ അവർ മന്ദബുദ്ധികളാണ് അല്ലെങ്കിൽ അവർ സാഹചര്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തുടർന്ന് അത് ആവേശത്തോടെ വരുന്നു രക്തം തിളച്ചുമറിയുന്നു കാരണം ഓ ആരോ നിങ്ങളോട് കടുത്ത അനീതി ചെയ്തുവെന്ന് മനസ്സ് കരുതുന്നു ഇപ്പോൾ നിങ്ങൾ ആ വ്യക ്തിയെ സ്ഥലം കാണിക്കണം ഇപ്പോൾ ഈ ചെറിയ ആംഗ്യം പോലും മൃദുവായ വൈദഗ്ധ്യമാണ് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ചെറിയ കപ്പ് ചായയോ തണുത്ത പാനീയമോ നൽകുമ്പോൾ ആകസ്മികമായി ഈ കൂൾ ഡ്രിങ്ക് ഈ സഹപ്രവർത്തകന് പ്രിയപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് അനുമാനിക്കാം അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല അതിനാൽ അദ്ദേഹത്തിന് അത് എടുക്കാം അല്ലെങ്കിൽ വെള്ളം തണുത്ത വെള്ളം പോലും ആർക്കും വേണ്ട എന്ന് പറയാൻ കഴിയില്ല അത് കഴിക്കുന്ന വ്യക്തി അത് കുടിക്കുന്നു യഥാർത്ഥത്തിൽ അത് വ്യക്തിയുടെ ഞരമ്പുകളെ ശാന്തമാക്കും ഇത് വ്യാപിക്കുന്നതിനുള്ള ഒരു രീതിയാണ് മറ്റ് വഴികളുമുണ്ട് ആ വ്യക്തിയെ ഇരുത്തുക തുടർന്ന് നിങ്ങൾ തിരക്കിലായ ഒരാളാണെങ്കിൽ ടിവിയിലെ രസകരമായ ചില പരിപാടികളിലോ സംഗീതത്തിലോ അത് പോലുള്ള മറ്റ് ചില പ്രവർത്തനങ്ങളിലോ ആ വ്യക്തിയെ ഏർപ്പെടുത്താൻ കഴിയും അതിനാൽ കാത്തിരിപ്പിൽ പോലും ആ വ്യക്തിയുടെ കോപം പതുക്കെ കുറയും നിങ്ങൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കോപം നിയന്ത്രിക്കുക ആശയവിനിമയ ബ്ലോക്കറുകൾ ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കുക അതിനാൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കർമാർ ഇതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ സംസാരിക്കും എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആളുകൾ പറയുന്നത് അറിഞ്ഞിരിക്കണംഃ നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് ചെയ്യുന്നു നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല അവർക്ക് ചിന്തയുടെ കാഠിന്യം ഉണ്ടെന്ന് തെളിയിക്കുന്നു എന്നിട്ട് ആരെങ്കിലും ഇല്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് ഇതുപോലെ തടസ്സപ്പെടുത്താൻ കഴിയില്ല തുടർന്ന് ആ വ്യക്തിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവയെല്ലാം കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കറുകളാണ് ആശയവിനിമയത്തിൽ മറ്റേ വ്യക്തിയെ സ്വമേധയാ പുറത്തുവരാൻ ആ വ്യക്തി അനുവദിക്കുന്നില്ല അത് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാംഃ ദയവായി മറ്റേയാളെ സംസാരിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ ഊഴം വരും ഞാൻ നിങ്ങളെ പൂർണ്ണമായി സംസാരിക്കാൻ അനുവദിക്കും ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കും ദയവായി ആ വ്യക്തിയെ അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക ആ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുക അവൻ ശരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇ വിടെയുണ്ട് എന്നെ വിശ്വസിക്കുക ഇപ്പോൾ അടുത്തത് സഹാനുഭൂതിയുള്ള കഴിവുകളാണ് സ്റ്റീഫൻ കോവെയ്സിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ച ആദ്യത്തെ കുറച്ച് പാഠങ്ങളിലേക്ക് മടങ്ങുക അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ പരാമർശിച്ച മറ്റൊരു ഉദാഹരണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു മറ്റൊരാൾക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് പറയുന്നതിനുമുമ്പ് നിങ്ങൾ ആദ്യം മറ്റൊരാളെ മനസിലാക്കാൻ ശ്രമിക്കുക മറ്റേയാൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയുന്നതിനുമുമ്പ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക മറ്റേയാൾക്ക് ദേഷ്യമുണ്ടാക്കുന്നത് എന്താണ് എന്നതാണ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് മറ്റൊരാളിലേക്ക് സ്വയം ഇറങ്ങിച്ചെല്ലുക ആ വ്യക്തിക്ക് എങ്ങനെ അനുഭവപ്പെടുമെന്ന് അനുഭവിക്കുക സഹാനുഭൂതി എന്നാൽ യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തിയെ അനുഭവിക്കുകയും ആ നിമിഷത്തിൽ അവൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് നേടുകയും ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വീണ്ടും സംഘർഷം കുറയ്ക്കാൻ പോകുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് cognitive റീസ്ട്രക്ചറിംഗ് ആണ് കോഗ്നിഷൻ എന്നാൽ ധാരണയുടെയും പഠനത്തിന്റെയും യുക്തിയുടെയും മനഃശാസ്ത്രപരമായ ഫലം എന്നാണ് അർത്ഥമാക്കുന്നത് ഒരേ പ്രശ്നത്തിന് രണ്ട് പരിഹാരങ്ങൾ മൂന്ന് പരിഹാരങ്ങൾ ഉണ്ടാകാമെന്നും നിങ്ങൾക്ക് ഒരേ കാര്യത്തെ വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് നോക്കാമെന്നും ഞാൻ മുമ്പത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ഇപ്പോൾ നിങ്ങൾ ധാരണയിലൂടെ മുഴുവൻ കാര്യങ്ങളും പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് ധാരണ ശരിയാക്കുകയും തുടർന്ന് ശരിയായ ധാരണയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയും തുടർന്ന് നിങ്ങളുടെ യുക്തിയും ന്യായവാദവും പ്രയോഗിച്ച് ഇരുവരും തെറ്റാണെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരിധിവരെ തെറ്റാണെന്ന് ഇരുവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതിനാലാണ് ആ വ്യക്തി ദേഷ്യപ്പെട്ടത് എന്നാൽ മറ്റേയാൾ അത് അർത്ഥമാക്കിയില്ല അതിനാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പുനസംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സംഘർഷം കുറയ്ക്കാൻ കഴിയും പിന്നെ ഒടുവിൽ ചർച്ചകൾ നടത്തുന്നു അതിന്റെ അവസാനം ശരി ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾക്കും ഇത് ലഭിക്കും അതിന്റെ അവസാനം എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് അതിനാലാണ് നിങ്ങൾക്ക് ഈ വിൻ വിൻ മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയുന്നത് എല്ലായ്പ്പോഴും വിൻ വിൻ സാഹചര്യത്തിനായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഞാൻ ഇപ്പോൾ പരിഹാരങ്ങൾ നൽകാൻ പോകുന്നില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സംഘർഷം സ്ഥാപിക്കാൻ പോകുന്നു സംഘർഷത്തെക്കുറിച്ച് ചിന്തിക്കുക അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടർന്ന് നിങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകാനും പോകുന്നു എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സംഘർഷ പരിഹാരം നൽകാൻ കഴിയുന്നത് ഞാനാണ് എന്ന ധാരണയിലല്ലെന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല എന്നെക്കാൾ മികച്ച പരിഹാരങ്ങളുമായി നിങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സംഘർഷം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക തുടർന്ന് നിങ്ങളുടെ കുടുംബത്തോടും അയൽക്കാരോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ചർച്ച ചെയ്യുകയും ഈ സാഹചര്യം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കുകയും ചെയ്യുക വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഇത് ഇപ്പോൾ ഒരു സാധാരണ സാഹചര്യമാണ് നമുക്ക് ഇത് നോക്കാം ശിൽപയും കിഷോറും മൂന്ന് വർഷമായി പരസ്പരം സ്നേഹിച്ചിരുന്നു രണ്ട് കുടുംബങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് കിഷോറിന് ഒരു നല്ല ജോലി ലഭിക്കുന്നതുവരെ അവർ കാത്തിരിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അതിനാൽ സംഘർഷം മുമ്പ് ഉണ്ടായിരുന്നു അവൻ സാമ്പത്തികമായി സ്വതന്ത്രനാകാൻ അവർ കാത്തിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ എതിർത്ത് അവർ പരിഹരിച്ചു അങ്ങനെ അവർ വിവാഹിതരായി കുടുംബം ഇതിനെ എതിർത്തെങ്കിലും തങ്ങൾ ഐക്യപ്പെടണമെന്ന് അവർ കരുതി ഇപ്പോൾ കിഷോറിന്റെ ജോലിക്കായി മുംബൈയിലേക്ക് താമസം മാറിയതിൽ അവർ സന്തുഷ്ടരാണ് അതിനാൽ അവർ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിലേക്ക് പോകുന്നു വളരെ വിദൂര പശ്ചാത്തലത്തിൽ നിന്നുള്ള കുടുംബങ്ങളായിരിക്കാം ഒരു ഗ്രാമമായിരിക്കാം അതിനാൽ അവിടെ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക മനസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ അവർ അത് ഉപേക്ഷിച്ചു കിഷോറിന്റെ ജോലിക്കായി മുംബൈയിലേക്ക് താമസം മാറിയതിൽ അവർ സന്തുഷ്ടരായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുശേഷം കിഷോർ ആശയവിനിമയം നടത്താത്തവനായി മാറി ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ പക്ഷേ പതുക്കെ അവൻ സംസാരിക്കുന്നത് നിർത്തി അവൻ തന്റെ ആന്തരിക പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അതാണ് അൺ കമ്മ്യൂണിക്കേറ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നില്ല അവൻ ജോലിയിൽ നിന്ന് വൈകിയാണ് വീട്ടിലേക്ക് വരുന്നത് ടിവിയുടെ മുന്നിൽ തനിച്ചായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ജോലിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം എന്തുതന്നെയായാലും അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ടി വി നോക്കി മാത്രം വിശ്രമിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ശിൽപയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു അവർ കുടുംബത്തിൽ നിന്ന് അകന്ന് ഒരുമിച്ച് താമസിക്കുന്നവരാണ് ഇപ്പോൾ അവൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു ഇപ്പോൾ ഈ വ്യക്തി ഒന്നും പങ്കിടുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല കണ്ണുതുറന്നു നോക്കുന്നില്ല കിഷോർ സ്വാർത്ഥനായിത്തീർന്നുവെന്നും തൻറെ ക്ഷേമത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും അവൾ മനസ്സിലാക്കുന്നു അവൻ എന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നതെന്ന് അവൾ കരുതുന്നു അവന് എന്നോടുള്ള സംവേദനക്ഷമത നഷ്ടപ്പെട്ടു വിവാഹമോചനത്തിന് ഫയൽ ചെയ്യണമോ എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രധാന സംഘർഷം ഇപ്പോൾ ഇവിടെ വരുന്നു ഈ മനുഷ്യനോടൊപ്പം ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾ ചിന്തിക്കുന്ന സംഘർഷത്തിന്റെ ഘട്ടത്തിലേക്ക് അവൾ എത്തി എന്തുകൊണ്ട് എനിക്ക് വിവാഹമോചനത്തിന് പോയ്ക്കൂടാ എൻറെ ജീവിതം സന്തോഷകരമാക്കിക്കൂടാ ഇപ്പോൾ നിങ്ങൾ അവിടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥന്റെ പങ്ക് നൽകുന്നു വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്നതിൽ നിന്ന് ശിൽപയെ നിങ്ങൾ എങ്ങനെ തടയുകയും കിഷോറിനെ ആശയവിനിമയപരവും കരുതലുള്ളവനുമാക്കുകയും ചെയ്യും നിങ്ങൾ അത് എങ്ങനെ ചെയ്യും നിങ്ങൾ അയൽക്കാരനാണെന്നും അവർ നിങ്ങളെ അവരുടെ കുടുംബസുഹൃത്തായി വിശ്വസിക്കുന്നുവെന്നും നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്ക് ഇതിനകം ഒരു നല്ല സ്ഥാനമുണ്ട് അതിനാൽ രണ്ട് ആളുകളും നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾ പക്ഷപാതമില്ലാത്തതും വിവേചനരഹിതവുമായ വ്യക്തിയാണെന്ന് അവർ കരുതുന്നു ഇപ്പോൾ വിവാഹമോചനത്തിന് അപേക്ഷിക്കാനും കിഷോറിനെ ആശയവിനിമയം നടത്താനും കരുതലും നൽകാനും നിങ്ങൾ അവളെ എങ്ങനെ തടയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ ചർച്ച ചെയ്യുന്ന ഫോറത്തിൽ എന്നോട് പറയുക ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ എന്റെ പരിഹാരങ്ങൾ നൽകും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എങ്ങനെ ശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും നമുക്ക് രണ്ടാമത്തെ രംഗം നോക്കാം വീണ്ടും മറ്റൊരു പരസ്പരവിരുദ്ധമായ സാഹചര്യം വീണ്ടും ഇത് ഇന്ത്യൻ വീടുകളിൽ വളരെ സാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരു ദിവസം മകനും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് മകൻ പറയുന്നു അച്ഛാ ഈ വേനൽക്കാലത്ത് എന്നെ ഒരു വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു അച്ഛൻഃ അതെ ഞാൻ ചെയ്തിരുന്നു നിനയ്ക്ക് 10 പോയിന്റ് സിപിഐ ലഭിക്കുകയാണെങ്കിൽ എന്നായിരുന്നു ഐഐടി പോലുള്ള മിക്ക സംവിധാനങ്ങളിലും പോലെ 10 പോയിന്റ് എന്നത് 100 ൽ 100 പൂർണ്ണ മാർക്ക് നേടുന്നതിന് തുല്യമാണ് എന്ന് അറിയാത്തവറുണ്ട് മകൻ പറയുന്നു എനിക്ക് 9 6 ലഭിച്ചു അത് വളരെ അടുത്താണ് 6 എന്നത് 96 മാർക്ക് പോലെയാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നു പക്ഷേ അത് 10 ആക്കുന്നില്ല കുട്ടാ മകൻ പറയുന്നുഃ നിങ്ങൾ വളരെ മോശക്കാരനായ പിതാവാണ് അച്ഛൻ പറയുന്നുഃ തോൽക്കുന്നവരോട് മോശമായി പെരുമാറുന്നു പരാജിതൻ അവൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു എന്നാണ് അതിനാൽ ഞാൻ അർത്ഥശൂന്യനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അർത്ഥശൂന്യനാണ് ആദിത്യയെ നോക്കൂ അവൻ 10 പോയിന്റ് നേടിയിട്ടുണ്ട് എന്നാൽ അവന്റെ അച്ഛൻ എല്ലായ്പ്പോഴും അവനെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്നെ വെറുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മകളെ മാത്രം സ്നേഹിക്കുന്നു എന്നെയല്ല ഇപ്പോൾ അച്ഛൻ പറയുന്നു അത് അനീതിയാണ് എല്ലാത്തിനുമുപരി ഞാൻ നിനയ്ക്കായി ചെയ്തു കോളേജിലെ ഫീസ് അടയ്ക്കാൻ ഞാൻ എന്റെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ചു നന്ദികെട്ട വൻ ദേഷ്യത്തിൽ അയാൾ അയാളെ അടിക്കുന്നു ഇപ്പോൾ മകൻ കരയാൻ തുടങ്ങുകയും കരയുകയും ചെയ്യുന്നു അവൻ പറയുന്നുഃ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും മനസ്സിലാകില്ല അച്ഛാ ഒരിക്കലും ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ ഇപ്പോൾ വീട് വിടുകയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രസകരമായ ഒരു വേഷം ചെയ്യാനുണ്ട് ഇപ്പോൾ നിങ്ങൾ മകന്റെ അമ്മയാണ് അത് തീർച്ചയായും ഭർത്താവിന് നിങ്ങളുടെ ഭാര്യയെപ്പോലെയാണ് അതിനാൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ വളരെ സ്നേഹനിർഭരമായ ഒരു സ്ഥാനത്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന് ഇരുവരും വിശ്വസിക്കും നിങ്ങൾ എങ്ങനെ അവനെ പ്രത്യേകിച്ച് മകനെ തടയുകയും അച്ഛനെയും മകനെയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഞാൻ നൽകിയ നിർദ്ദേശങ്ങളിലേക്കും ഞാൻ നിർദ്ദേശിച്ച പ്രക്രിയയിലേക്കും മടങ്ങുക ആ കഴിവുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഗൃഹപാഠം ചെയ്യുക ഫോറത്തിൽ ചർച്ച ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക പരിഹാരങ്ങളുമായി വരിക അടുത്ത പ്രഭാഷണത്തിൽ ഇത് വിശദമായി ചർച്ച ചെയ്യും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൻ വിൻ പരിഹാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക അത് ഒരു വിൻ വിൻ പരിഹാരമായിരിക്കണമെങ്കിൽ ഓർക്കുക അതിന്റെ അവസാനം നിങ്ങൾക്ക് വിൻ വിൻ പരിഹാരം നൽകാൻ കഴിയുമെങ്കിൽ പരസ്പര ബഹുമാനത്തിന്റെ തീവ്രമായ വികാരം ഉണ്ടാകുകയും ഓരോ സംഘർഷവും പരിഹരിക്കപ്പെടുമ്പോൾ സ്നേഹം കൂടുതൽ ആഴത്തിൽ വളരുകയും ചെയ്യുന്നു ആളുകൾ കൂടുതൽ അടുക്കുന്നു ആളുകൾ കൂടുതൽ തീവ്രരും പരസ്പരം കൂടുതൽ അനുകമ്പയുള്ളവരുമായിത്തീരുന്നു ഇപ്പോൾ രണ്ട് കേസുകളിലും ഒന്ന് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നു മറ്റൊന്നിൽ മകൻ വീട് വിടുന്നു ഇത് വളരെ വൈരുദ്ധ്യമുള്ളതും വിദ്വേഷകരവുമായ ഒരു സാഹചര്യമാണ് നിങ്ങൾ അത് വിൻ വിൻ പരിഹാരത്തിലൂടെ പരിഹരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നല്ല പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക അടുത്ത പ്രഭാഷണത്തിൽ കാണാം